ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് അതായത് പ്രഭാഷണ നമ്പർ 10 ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബയോറിയാക്ടറുടെ ഓപ്പറേറ്റിംഗ് മോഡുകൾ വിശകലനം ചെയ്യുന്ന മൊഡ്യൂൾ 3 ആരംഭിക്കും ഞാൻ ഇവിടെ സ്ക്രീൻ പരമാവധി വലുതാകട്ടെ സാധാരണ ബയോ റിയാക്ടർ ഓപ്പറേറ്റിംഗ് മോഡുകളുടെ വിശകലനം മുമ്പത്തെ മൊഡ്യൂളിൽ കണ്ട സാധാരണ ബയോ റിയാക്ടർ ഓപ്പറേറ്റിംഗ് മോഡുകൾ ആദ്യം നമുക്ക് ഓർമ്മിക്കാം ഓപ്പറേറ്റിംഗ് മോഡായി നമ്മൾ ആദ്യം ബാച്ചിനെ കണ്ടു ഒരു ബാച്ച് മറ്റൊന്നുമല്ല നമ്മൾ എല്ലാം ചേർക്കുന്നു ആരംഭ സമയത്ത് എല്ലാം തന്നെ അതിൽ ഉണ്ട് ഇതിൽ കൂട്ടിച്ചേർക്കലോ നീക്കംചെയ്യലോ ഇല്ല കൂട്ടിച്ചേർക്കലോ നീക്കംചെയ്യലോ ഇല്ലാതെ ബാച്ച് റിയാക്ടറിനുള്ളിലാണ് പ്രക്രിയ നടക്കുന്നത് ബാച്ച് സമയത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഉള്ളടക്കങ്ങൾ പുറത്തെടുത്ത് പ്രോസസ്സിംഗിന് പോകുക എല്ലാം ചേർത്തതിനുശേഷം പുതിയ ബാച്ച് സമയം ആരംഭിക്കുന്നുകാര്യങ്ങൾ നീക്കംചെയ്യുന്നതിന് മുമ്പ് ബാച്ച് സമയം അവസാനിക് അതാണ് ബാച്ച് പ്രവർത്തന രീതി കൺഡിന്യുസ് പ്രവർത്തന മോഡ് നമ്മൾ കണ്ടു അവിടെ ബയോ റിയാക്ടറിൽ നിന്ന് തുടർച്ചയായ ഒരു സ്ട്രീം അകത്തേക്കും തുടർച്ചയായ സ്ട്രീം പുറത്തേക്കും ഉണ്ട് തുടർച്ചയായി പ്രവാഹം നടക്കുമ്പോൾ പ്രക്രിയകൾ ഒരേസമയം നടക്കുന്നു രണ്ടിനുമിടയിൽ അതിനാൽ ബാച്ചിനും തുടർച്ചയായതിനും നമുക്ക് ഫെഡ് ബാച്ച് ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ഒരു ബാച്ചായി ആരംഭിക്കാം തുടർന്ന് നമുക്ക് ഇടയ്ക്കിടെ ഫീഡ് ചെയാം അല്ലെങ്കിൽ ഇടയ്ക്കിടെ നീക്കംചെയ്യാം അല്ലെങ്കിൽ തുടർച്ചയായ ഫീഡിങ്ങും തുടർച്ചയായ നീക്കംചെയ്യലും അല്ലെങ്കിൽ രണ്ടും നമുക്ക് അറിയാം ഒരേസമയം തുടർച്ചയായ ഇൻ അതുപോലെ തുടർച്ചയായ ഔട്ട് അല്ലാത്ത ഏത് കോമ്പിനേഷനെയും ഫെഡ് ബാച്ച് എന്ന് വിളിക്കുന്നു ബാച്ച് കൺഡിന്യുസ് ഫെഡ് ബാച്ച് എന്നിവ 3 കോമൺ ബയോ റിയാക്ടർ ഓപ്പറേറ്റിംഗ് മോഡുകൾ ആണ് ഈ മോഡുകളുടെ ചില അടിസ്ഥാന വിശകലനം നോക്കാം അത്തരമൊരു വിശകലനം ഡിസൈൻ തരത്തിലുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമ്മളെ സഹായിക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി എത്ര നേരം ഒരു ബയോ റിയാക്ടർ പ്രവർത്തിപ്പികണം അതുപോലെ ഉള്ളവ ഒരാൾ ചോദിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു അടിസ്ഥാന ഡിസൈൻ ചോദ്യമായിരിക്കും അത് അത്തരം വിശകലനത്തിലൂടെ ഒരാൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന സങ്കീർണ്ണമായ ഡിസൈൻ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം ഈ പ്രഭാഷണത്തിൽ നമുക്ക് ബാച്ച് ബയോറിയാക്ടറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ബാച്ച് ബയോറിയാക്റ്റർ ആണ് നമ്മൾ ആദ്യം ഏറ്റെടുക്കുന്നത് കാരണം ഇത് വ്യവസായങ്ങളിൽ വളരെ സാധാരണമായ പ്രവർത്തന രീതിയാണ് അത് വളരെ ശക്തമാണ് ലളിതവും എന്നാൽ ശക്തവുമാണ് മറ്റ് മോഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് എളുപ്പമാണ് മാത്രമല്ല ഇത് വ്യവസായത്തിൽ മുൻഗണന നൽകാനുള്ള ഒരു കാരണമാണ് ബാച്ച് പ്രവർത്തന രീതി ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലാബിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം ഡാറ്റയാണ് വളരെക്കാലം മുമ്പ് ഇത് മൊത്തം കോശങ്ങളുടെ ഏകാഗ്രതയാണ് ഓർക്കുക നമ്മൾ മൊത്തം കോശങ്ങളുടെ സാന്ദ്രതയെക്കുറിച്ചും പ്രായോഗിക സെൽ സാന്ദ്രതയെക്കുറിച്ചും സംസാരിച്ചു ഇത് മൊത്തം കോശങ്ങളുടെ സാന്ദ്രതയാണ് ഇത് നമ്മൾ യഥാർത്ഥത്തിൽ OD എന്ന് ഗ്രാഫിലൂടെ അളന്നു കോശങ്ങൾ ചിതറുന്നു തുടർന്ന് കാലിബ്രേറ്റ് ചെയുന്നു കൂടാതെ ODയെ ലിറ്ററിന് ഗ്രാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ നമ്മൾ ഒരു കാലിബ്രേഷൻ കർവ് ഉപയോഗിച്ചു ഇത് സാന്തോമോണസ് കാമ്പെസ്ട്രിസ് ആണെന്ന് ഞാൻ കരുതുന്നു ഞാൻ പ്രതിനിധി ആയി ഒരു ബാച്ചിന്റെ വളർച്ച എടുത്തു ഒരു ലിറ്ററിന് ഗ്രാമിലെ മൊത്തം കോശങ്ങളുടെ സാന്ദ്രത y ആക്സിസിൽ ആണ് വളർച്ചയുടെ സമയം x ആക്സിസിലും ഏകദേശം 5 6 മണിക്കൂർ എന്ന് നമുക്ക് കാണാനാകും മൊത്തം കോശങ്ങളുടെ സാന്ദ്രതയിൽ മാറ്റമില്ല ഏകദേശം 6 മണിക്കൂർ കോശങ്ങളുടെ സാന്ദ്രത ഏകദേശം 28 മണിക്കൂർ വരെ വർദ്ധിക്കാൻ തുടങ്ങുകയും പിന്നീട് അത് മാറ്റമിലാതെ ഇരിക്കുകയും ചെയ്യും കോശങ്ങളുടെ സാന്ദ്രതയിൽ മാറ്റമില്ലാത്ത പ്രാരംഭ ഘട്ടം മൊത്തം കോശങ്ങളുടെ സാന്ദ്രതയെ ലാഗ് ഫേസ് എന്ന് വിളിക്കുന്നു കോശങ്ങളുടെ സാന്ദ്രത അതിവേഗം മാറുന്ന പ്രദേശത്തെ ലോഗ് ഫേസ് എന്ന് വിളിക്കുന്നു കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം കോശങ്ങളുടെ സാന്ദ്രത വർദ്ധിക്കാത്ത ഒരു സ്റ്റേഷണറി ഘട്ടം എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുന്നു അല്പം വിപരീതമായി ഒരേ ജീവിയുടെ കോശങ്ങളുടെ കോൺസെൻട്രേഷൻ പ്രൊഫൈൽ നോക്കാം ലിറ്ററിന് പ്രായോഗിക കോശത്തിന്റെ കോൺസെൻട്രേഷൻ ഗ്രാം ഇവിടെ നൽകിയിരിക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ ഇത് മൊത്തം കോശങ്ങളുടെ സാന്ദ്രതയാണ് സ്കെയിൽ 0 മുതൽ 3 വരെ തുല്യമാണ് ഇവിടെ വീണ്ടും പൂജ്യം മുതൽ മൂന്ന് വരെ എന്നാൽ ഇത് പ്രായോഗിക കോശങ്ങളുടെ സാന്ദ്രതയാണ് ഇത് ലഭിച്ച പ്ലേറ്റിംഗ് സാന്തോമോനാസ് പ്ലേറ്റിംഗ് രീതിയിലൂടെയാണ് നമുക്ക് കാണാനാകുന്നതുപോലെ വയബിൾ കോശ സാന്ദ്രതയും മൊത്തം കോശങ്ങളുടെ സാന്ദ്രതയോടുകൂടിയ ഒരു നല്ല ഓവർ ലാപ്പ് ഉണ്ട് ഈ പ്രദേശത്തെക്കുറിച്ചും ഏകദേശം ഇവിടെയും വരെ ഒരു മികച്ച ഓവർ ലാപ്പ് ഉണ്ട് തുടർന്ന് ഏകദേശം 40 മണിക്കൂറിൽ അത് പ്രതീക്ഷിച്ചപോലെ താഴാൻ തുടങ്ങുന്നു കാരണം ഇവിടെ കോശങ്ങളുടെ സാന്ദ്രത കുറയുന്നു കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ മരണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അത് കോശങ്ങളുടെ കോൺസൺട്രേഷൻ പ്രൊഫൈലിൽ ദൃശ്യമാകും മൊത്തം കോശങ്ങളുടെ സാന്ദ്രത പ്രൊഫൈലിൽ ഇത് വളരെക്കാലം കാണിക്കില്ല അതാണ് യഥാർത്ഥ ഡാറ്റ അതിനാൽ ഇത് ഒരു ലളിതമായ ബാച്ചാണ് അവിടെ ഒരു പരിമിതപ്പെടുത്തുന്ന സബ്സ്ട്രേറ്റ് ഉണ്ട് ഒരു പ്രധാന സബ്സ്ട്രേറ്റ് ആ സബ്സ്ട്രേറ്റിൽ കോശങ്ങൾ വളരുന്നു അതു മിക്കവാറും ഗ്ലൂക്കോസ് ആയിരിക്കും ചിലപ്പോൾ കാണപ്പെടുന്ന മറ്റൊരു തരം വളർച്ചയുണ്ട് ഇതിനെ ഡയാക്സിക് വളർച്ച എന്ന് വിളിക്കുന്നു ചിലപ്പോൾ അവർ അതിനെ ഡയക്സി എന്നും നാലാമതായി വിളിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി സബ്സ്ട്രേറ്റുകളുടെ തുടർച്ചയായ ഉപയോഗം കാരണം ഇത് അനിവാര്യമായും ഉയർന്നുവരുന്നു ഉദാഹരണത്തിന് ഗ്ലൂക്കോസിന്റെയും ലാക്ടോസിന്റെയും മിശ്രിതം ഉണ്ടെങ്കിൽ എസ്ചെറിഷ്യ കോളീ പോലുള്ള ഒരു സാധാരണ ജീവികൾക്കായി എന്ന് നമുക്ക് പറയാം ലാക്ടോസിനേക്കാൾ ഗ്ലൂക്കോസ് തിരഞ്ഞെടുത്ത് അതാകും ആദ്യം എടുക്കുന്നത് ഇത് സംഭവിക്കുന്നതിന് അറിയപ്പെടുന്ന ഒരു സംവിധാനമുണ്ട് തന്മാത്രാ പദങ്ങളിൽ ഇത് ലാക് ഒപെറോൺ എന്നറിയപ്പെടുന്നു നമ്മൾ അതിൽ പ്രവേശിക്കുകയില്ല ഇ കോളിയിൽE coli എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നന്നായി മനസ്സിലായി എന്നിരുന്നലും നമ്മുടെ ആവശ്യങ്ങൾക്കായി വളർച്ചാ വക്രം ഇതുപോലെ കാണപ്പെടും നമ്മൾ മൊത്തം സെൽ സാന്ദ്രത x വേഴ്സസ് സമയത്തിന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഇനിഷ്യൽ ലാഗ് ഫേസ് ഉണ്ട് അതിനുശേഷം ഒരു ലോഗ് ഫേസ് ഉണ്ട് തുടർന്ന് ഇത് സ്റ്റേഷനറി ഫേസ് ആണെന്ന് തോന്നുന്നു പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സെകണ്ടറി ലാഗ് ഫേസ് ആണ് തുടർന്ന് വളർച്ച സംഭവിക്കുന്നു നമ്മൾ ഗ്ലൂക്കോസിന്റെയും ലാക്ടോസിന്റെയും വിശകലനം നടത്തുമ്പോൾ ആദ്യം ഇവിടെ ഗ്ലൂക്കോസ് എടുക്കുകയും പിന്നീട് ലാക്ടോസ് ഉപഭോഗം ചെയ്യുകയും ചെയ്യുന്നു വളർച്ചാ നിരക്ക് നമുക്ക് കാണാനാകുന്നതുപോലെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തുകടക്കും ലാക്ടോസിന്റെ വളർച്ചാ നിരക്കിനെ അപേക്ഷിച്ച് ഇവിടെ എങ്ങനെ ലഭിക്കും എന്ന് നമുക്ക് കാണാം ഗ്ലൂക്കോസിന്റെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് ലാക്ടോസിന്റെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും സാധാരണ നമുക്ക് വേണ്ട സബ്സ്ട്രേറ്റിന് മറ്റ് സബ്സ്ട്രേറ്റുകളേക്കാളും ഉയർന്ന വളർച്ചാ നിരക്കും നിർദ്ദിഷ്ട വളർച്ചാ നിരക്കും കാണുന്നു ഒരു ആമുഖ കോഴ്സിൽ ഇത് അറിയുന്നത് നല്ലതാണ് നമ്മുടെ വിശകലനത്തിനായി ഇത് പറഞ്ഞുകഴിഞ്ഞാൽ മുമ്പ് കണ്ട ലളിതമായ ബാച്ച് വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഒരു ജീവി ഒരു സബ്സ്ട്രേറ്റ് എന്നിങ്ങനെ ഒരു പരിമിതപ്പെടുത്തുന്ന സബ്സ്ട്രേറ്റും ബാച്ച് വളർച്ച യഥാർത്ഥ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ കണ്ടതുപോലെ കോശങ്ങളുടെ സാന്ദ്രത വേർസസ് സമയം ഒരു ലാഗ് ഫേസ് ലോഗ് ഫേസ് പിന്നെ സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കുന്ന ഒന്ന് നമ്മൾ കോശങ്ങളുടെ സാന്ദ്രത ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഡെത്ത് ഫേസ് കാണും അവിടെ കോശങ്ങളുടെ സാന്ദ്രത കുറയുന്നു സോളിഡ് ലൈൻ മൊത്തം കോശങ്ങളുടെ സാന്ദ്രതയാണ് ഡോട്ട്ഡ് ലൈൻ അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻ കോശങ്ങളുടെ സാന്ദ്രത കാണിക്കുന്നു ഇനി നമുക്ക് ബയോ റിയാക്റ്റർ ബ്രോത്തിലെ കോശങ്ങളുടെ ഒരു മാസ് ബാലൻസ് നോക്കാം ബയോ റിയാക്റ്റർ ബ്രോത് ബയോ റിയാക്ടറിലെ ദ്രാവകമാണ് കോശങ്ങളിൽ ഈ മാസ്സ് ബാലൻസ് ചെയ്യുന്നതിന് നമ്മുടെ സിസ്റ്റമായി നാം എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 മുതൽ നമ്മൾ കണ്ട സമവാക്യമാണിത് ഇവ മാസ് റേറ്റുകളാണ് ഇൻപുട്ടിന്റെ മാസ്സ് നിരക്ക് മൈനസ് ഔട്ട്പുട്ട് മാസ് റേറ്റു പ്ളസ് ജനറേഷൻറേറ്റ് മൈനസ് റേറ്റ് കൺസമ്ഷൻ റേറ്റ് മാസ് അടിസ്ഥാനത്തിൽ മാസിന്റെ ശേഖരണനിരക്കിന് തുല്യമാണ് അതിനാൽ കോശങ്ങളുടെ ബാലൻസ് നമ്മൾ ചെയ്യുന്നു സാധാരണയായി ഇത് ബാച്ച് ബയോറിയാക്ടറിലെ കോശങ്ങളുടെ മാസ്സിനായി ആണ് എഴുതുന്നത് ri rorg rcddt കാരണം ഇത് ബാച്ച് ആയതിനാൽ നമുക്ക് വളർച്ച മാത്രം പരിഗണിക്കാം ഇപ്പോൾ ഈ ഘട്ടം മാത്രം പറയട്ടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം പരിഗണിക്കാൻ പോകുന്നത് ഒരു മരണവുമില്ല ഇൻപുട്ടിന്റെ റേറ്റ് ഇല്ല ഔട്ട്പുട്ട് റേറ്റ് ഇല്ല കാരണം ഇത് ഒരു ബാച്ചാണ് അതാണ് ഒരു ബാച്ചിന്റെ അടിസ്ഥാന നിർവചനം മരണമില്ലാത്തതിനാൽ കോശങ്ങളുടെ ഉപഭോഗം ഇല്ല അതിനാൽ ri ro rc എന്നിവ 0 ആണ് ആ 3 നിരക്കുകൾ പൂജ്യമാണ് അതിനാൽ മാസിന്റെ അടിസ്ഥാനത്തിലുള്ള വളർച്ചാ നിരക്കായ rg ഇവിടെ dm dt ന് തുല്യമാണ് rgddt നമ്മൾ m എന്നത് കോശങ്ങളുടെ സാന്ദ്രത ഉപയോഗിച്ച് എഴുത്തുകയാണെകിൽ കാരണം കോശങ്ങളുടെ സാന്ദ്രത നമുക്ക് എളുപ്പത്തിൽ ആളാക്കാവുന്ന ഒന്നാണ് നമ്മൾ എല്ലാത്തിനേം ആളക്കാവുന്ന അളവുകൾ ഉപയോഗിച്ച് എഴുതുന്നു അതോടൊപ്പം അതു തീരുമാനങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ rg ഒരു മാസ്സ് അടിസ്ഥാനത്തിൽ ddt ഓഫ് m അതിനെ x V എന്ന് എഴുതാം കോശങ്ങളുടെ സാന്ദ്രത എന്നത് കോശങ്ങളുടെ മാസ്സ് ആണ് അതായത് യൂണിറ്റ് വോളിയം തവണ അത് സിസ്റ്റത്തിന്റെ വോളിയം ആണ് അല്ലെന്കിൽ ബ്രോത് അത് m ആണ് rgddtdxVdt rgddtdxVdt ബാച്ച് വളർച്ചയുടെ കാര്യത്തിൽ ബാച്ചിന്റെ വലിപ്പത്തിൽ മാറ്റമൊന്നുമില്ല കൂട്ടിച്ചേർക്കലുകളൊന്നുമില്ല കുറയുകയോ ബാച്ചിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുകയോ ഇല്ല അതിനാൽ വോളിയം കോൺസ്റ്റന്റ് ആയി തുടരുന്നു വോളിയം ഒരു കോൺസ്റ്റന്റ് ആണെകിൽ അത് കാലത്തിനനുസരിച്ച് മാറാൻ പോകുന്നില്ല അതിനാൽ ഈ ഡെറിവേറ്റീവിൽ നിന്ന് V ഇവിടെ കോൺസ്റ്റന്റ് ആയി പുറത്തെടുക്കാൻ കഴിയും അതിനാൽ ഇത് V തവണ dx dt ആയി മാറുന്നു rgddtVdxdt ഇപ്പോൾ rx എന്നത് ഒരു വോള്യൂമെട്രിക് അടിസ്ഥാനത്തിലുള്ള നിരക്കാണെങ്കിൽ അവയാണ് നേരിട്ട് അളക്കുന്നവ അതിനാൽ നമ്മൾ അവയെ അതിന്റെ വാക്യത്തിൽ എഴുതുന്നു V യിലേക്കുള്ള rx rg ന് തുല്യമായിരിക്കും ഇത് ഒരു സാന്ദ്രതയിലോ വോള്യൂമെട്രിക് അടിസ്ഥാനത്തിലോ ആണ് എന്ന് നമുക്കറിയാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് കോശങ്ങളുടെ സാന്ദ്രത മാറുന്നതിന്റെ നിരക്ക് rx ആണ് കോശ സാന്ദ്രതയുടെ വ്യത്യാസത്തിന്റെ നിരക്കിനെ വ്യാപ്തം കൊണ്ട് ഗുണിച്ചത് മാസ് സാന്ദ്രതയുടെ വ്യത്യാസത്തിന്റെ നിരക്കിന് തുല്യമാണ് അതിനാൽ rx times V rg ന് തുല്യമാണ് അത് ഇവിടെ നിന്ന് V dx dt ന് തുല്യമാണ് അതിനാൽ ഈ rx മറ്റൊന്നുമല്ല dx dt ആണ് rxVrgVdxdt rxdxdt അതിനാൽ ബാച്ച് ബയോറിയാക്ടറുടെ പ്രത്യേക കേസിൽ വോള്യൂമെട്രിക് റേറ്റ് കോശങ്ങളുടെ സാന്ദ്രതയുടെ ശേഖരണനിരക്കിന് തുല്യമാണ് ഇത് നമ്മൾ ഇതിനകം ഒരു പ്രത്യേക ബാലൻസായി കണ്ടു ഇതാണ് നമ്മുടെ സ്കൂളിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന രീതി അതോടൊപ്പം അതു ബാച്ചുകളിൽ ഒതുങ്ങി നില്ക്കുന്നു അതോടൊപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകരുതെന്നും നമ്മൾ പറഞ്ഞു തുടർച്ചയായ പ്രക്രിയകൾ ചർച്ചചെയ്യുമ്പോൾ ഇത് വ്യക്തമാകും ഒരു റേറ്റ് എന്ന ആശയം വളരെയധികം പൊതുവായതാണ് ഇവിടെ റേറ്റ് ഒരു അക്യുമുലേഷൻ റേറ്റിന് തുല്യമായതിനാൽ ഒരു ബാച്ച് സിസ്റ്റത്തിന് മാത്രമേ സാധുതയുള്ളൂ നമ്മൾ ഇതിനകം കണ്ട വളർച്ചാ നിരക്കിന്റെ പൊതു മോഡലുകളിൽ ഒന്ന് വാസ്തവത്തിൽ നമ്മൾ കണ്ട ആദ്യത്തെ മോഡൽ rx ആയിരുന്നു ഇത് ഒരു വോള്യൂമെട്രിക് അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം rx μx ന് തുല്യമാണ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ dx dt ക്ക് തുല്യമാണ് rxμxorheredxdtμx അക്യുമുലേഷൻ നിരക്ക് μx ന് തുല്യമാണ് നമ്മൾ rx നെ dxdt ഉപയോഗിച്ച് മാറ്റുന്നു dxdt μx ന് തുല്യമാണ് വാസ്തവത്തിൽ μ അത്തരമൊരു സാഹചര്യത്തിൽ നിർവചിക്കാം അല്ലെങ്കിൽ ഇവിടെ 1 by x dx dt എന്ന പദത്തിന്റെ അർത്ഥം കാണാൻ പോലും എളുപ്പമാകും അതാണ് ഞാൻ ഇവിടെ നൽകിയ കാരണം അത് ഇപ്പോഴും സാധുവാണ് 1 x dx dt ഇവിടെ കാണുന്നത് വളരെ എളുപ്പമാണ് കോശങ്ങളുടെ സാന്ദ്രതയുമായി ബന്ധപ്പെട്ട് ഇത് സാധാരണവൽക്കരിക്കപ്പെട്ടു അതിനാൽ ഇതിനെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് എന്ന് വിളിക്കുന്നു 1xdxdtμ ബാച്ച് വളർച്ച വിവരിക്കാൻ ഈ മോഡൽ ഉപയോഗിക്കാം പക്ഷേ ഭാഗങ്ങൾ ആയിട്ട് നമ്മൾ കണ്ട ബാച്ച് വളർച്ചയുടെ വിവിധ ഭാഗങ്ങൾ കോശങ്ങളുടെ സാന്ദ്രതയുടെ വ്യതിയാനം അതും ലാഗ് ടൈമിൽ ലോഗ് അതുപോലെ സ്റ്റേഷനറി ഫേസ് ലാഗ് ഫേസിൽ mu 0 ആണ് dxdt 0 ആണെന്ന് നമുക്കറിയാം കോശങ്ങളുടെ സാന്ദ്രതയിൽ മാറ്റമില്ല ഇവിടെയുള്ള ലോഗ് ഫേസിൽ നമ്മൾ ഇതുവരെ തുറന്നുകാട്ടിയതാകാം mu ഒരു കോൺസ്റ്റന്റ് ആയി കാണിക്കുന്നു സ്റ്റേഷനറി ഫേസിൽ വീണ്ടും കോശങ്ങളുടെ സാന്ദ്രതയിൽ മാറ്റമില്ല അതിനാൽ mu 0 ആണ് ലേറ്റ് ലോഗ് ഫേസിനു ഇടയിൽ ചില ഫേസസ് ഉണ്ട് ഏർലി ലോഗ് ഫേസ് അല്ലെങ്കിൽ ഏർലി സ്റ്റേഷണറി ഫേസ് എന്നിവയ്ക്കിടയിൽ ചില ഫേസസ് ഉണ്ട് ഈ ഫേസസ് ഈ സമവാക്യം വളരെ വ്യക്തമായി വിവരിച്ചിട്ടില്ല പക്ഷേ ഒരു ഡിസൈൻ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവ അറിയുന്നതിനോ നമ്മുടെ ഉദ്ദേശ്യങ്ങൾക്കായി അവ വിവരിക്കുന്നതിനോ വളരെ ആവശ്യമായി വരില്ല അതിനാൽ നമ്മൾ അതിലേക്ക് കടക്കില്ല അവ ചെയ്യുന്നതിനുള്ള വഴികളുണ്ട് ഗണിത പ്രാതിനിധ്യത്തിൽ അവ ഉൾപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളുണ്ട് ഈ പ്രത്യേക കോഴ്സിൽ ആ വശങ്ങൾ നമ്മൾ പരിശോധിക്കില്ല ഇപ്പോൾ ലോഗ് ഫേസ് മാത്രം പരിഗണിക്കാം അവിടെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ലോഗ് ഫേസിൽ mu ഒരു കോൺസ്റ്റന്റ് ആണ് അതിനാൽ dx dt μx ന് തുല്യമാണ് mu ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയി കണക്കാക്കാം dxdtμx ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ആയി നമ്മൾ പരിഹരിക്കുന്നുവെങ്കിൽ നമുക്ക് കുറഞ്ഞത് 1 ഇനിഷ്യൽ നിബന്ധനയെങ്കിലും ആവശ്യമായി വരും അതിനാൽ ഇനിഷ്യൽ സ്റ്റേറ്റ് t സമയത്തിന് തുല്യമാണ് അത് ലോഗ് ഫേസിന്റെ ആരംഭമാണ് അത് ബാച്ചിന്റെ തുടക്കമല്ല ഇത് ലോഗ് ഫേസിന്റെ തുടക്കമാണ് കോശങ്ങളുടെ സാന്ദ്രത x സീറോ ആണ് x സീറോ ബാച്ചിന്റെ തുടക്കത്തിലെ സാന്ദ്രതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കില്ല പക്ഷേ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകാം ഇത് വളരെയധികം മാറിയിട്ടില്ല പക്ഷേ ഇത് കുറച്ച് മാറി അതിനാൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ x സീറോ എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത ആവശ്യമാണ് കാരണം mu കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഈ മോഡൽ മറ്റേതൊരു ഫേസിലേക്കും അല്ല ലോഗ് ഫേസിനു മാത്രമേ ബാധകമാകൂ അതിനാൽ ഈ സമവാക്യം പരിഹരിക്കുന്നതിന് നമ്മൾ പോകുകയാണെങ്കിൽ കുറച്ച് പടികൾ എഴുതിയിട്ടുണ്ട് dxxμdt രണ്ട് വശങ്ങളും ഇന്റർഗ്രേറററ്റ് ചെയുക നമുക്ക് dx ന്റെ ഇന്റഗ്രൽ x നെ ln x ആയി ലഭിക്കുന്നു ഇവിടെ ഇത് mu t plus c ആണ് dxxμdt ln x μtc നമുക്ക് ഇവിടെ ഇനിഷ്യൽ കണ്ടിഷൻ ഉണ്ട് അത് നമ്മൾ c കണക്കു കൂട്ടാൻ ഉപയോഗിക്കുന്നു അതായത് ഇനിഷ്യൽ കണ്ടിഷനിൽ t tzero തുല്യമാണ് x xzeroനു തുല്യമാണ് അതിനാൽ ln ഓഫ് x mut zero പ്ലസ് c നു തുല്യം ആണ് c അല്ലെങ്കിൽ c ln xzero മൈനസ് mu t zero ന് തുല്യമാണ് ഇതാണ് നമ്മുടെ c ln x0 μt0c അതിനാൽ നമ്മൾ ഇത് ഇവിടെയുള്ള സമവാക്യത്തിൽ മാറ്റി എഴുത്തുകയാണെകിൽ പരിഹാരം ഇതായിരിക്കും ln x μtln x0 μt0 നമ്മൾ ഇരുവശത്തും സമാന പദങ്ങൾ സംയോജിപ്പിക്കുകയാണെങ്കിൽ ln ഓഫ് x മൈനസ് ln ഓഫ് x നോട്ട് അത് ഇതായിരിക്കും ln xx0μt t0 അതിനാൽ x xx0eμt t0 സമയത്തിനൊപ്പം കോശങ്ങളുടെ സാന്ദ്രത x ലെ വ്യതിയാനത്തിന്റെ വിവരണമാണിത് കാരണം ഇത് എക്സ്പോണൻഷ്യൽ ആണ് ഇത് നമ്മൾ ഈ ഫേസ് ഒന്നുകിൽ ഇതിനോട് യോജിക്കുന്ന ഒരു ലോഗരിതമിക് ഫേസ് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് കോശങ്ങളുടെ സാന്ദ്രതയുടെ വ്യതിയാനത്തെ വിവരിക്കുന്ന ഒരു എക്സ്പോണൻഷ്യൽ വളർച്ചാ ഫേസ് എന്ന് വിളിക്കുന്നു അതിനാലാണ് ഇതിനെ ലോഗ് ഫേസ് എന്ന് വിളിക്കുന്നത് ആവശ്യമുള്ള കോശത്തിന്റെ സാന്ദ്രതയിലെത്താൻ ആവശ്യമായ സമയം കണ്ടെത്താൻ ഈ സമവാക്യം ഉപയോഗിക്കാം അത് നേരായ ഫോർവേഡ് ഡിസൈൻ ആപ്ലിക്കേഷനാണ് പരാമീറ്ററുകൾ ആയ mu t naught ലാഗ് ഫേസ് സമയം ആണ് അതോടൊപ്പം x naught എന്നത് ലോഗ് ഫേസിന്റെ തുടക്കത്തിലേ സാന്ദ്രത ആണ് അത് ഇനിഷ്യൽ കോശങ്ങളുടെ സാന്ദ്രതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കില്ല നമുക്ക് ആകെ സമയം പ്രവചിക്കാൻ കഴിയും അതായത് മൊത്തം സമയം അതായത് ബാച്ചിന്റെ തുടക്കം t യിൽ നിന്നും x എത്തും വരെ അതു 1 ബൈ mu ln ഓഫ് x ബൈ x naught ഇത് നമ്മുടെ മുമ്പത്തെ കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു 1 ബൈ mu ln ഓഫ് x ബൈ x naught t naught എന്നത് പൂജ്യം ആയി എടുക്കാൻ കഴിയുമെങ്കിൽ അതു പ്ലസ് t naught അതാണ് ലാഗ് ഫേസിൽ ബാച്ച് ചിലവഴിക്കുന്ന സമയം അതിനാൽ ലാഗ് ടൈം ഇവിടെ ഉണ്ട് അത് ലോഗരിതമിക് വളർച്ചയുടെ സമയമാണ് xzeroയിൽ നിന്നും x എത്തുന്ന സമയം ഇത് ബാച്ചിന്റെ ആകെ സമയമായിരിക്കും ഒരു നിശ്ചിത കോശങ്ങളുടെ സാന്ദ്രത xzero യിൽ നിന്നും x ഇൽ എത്താൻ നമുക്ക് താല്പര്യമുണ്ടെകിൽ ലാഗ് ഫേസിൽ കോശങ്ങളുടെ സാന്ദ്രതയിൽ മാറ്റമില്ലെന്ന് നമ്മൾ അനുമാനിക്കുന്നു 1ln xx0t0t ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഇവിടെ നൽകാം നമ്മൾ കുറച്ചുകൂടി ഇത് തുടരും സമ്പൂർണ്ണതയ്ക്കായി നമ്മൾ ഈ പ്രഭാഷണത്തിൽ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യും എന്നാൽ ബാച്ച് ബയോ റിയാക്ടർ വിശകലനത്തിൽ കുറച്ച് പരിശീലനം നേടുന്നതിന് ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രശ്നം ഉള്ള ബാച്ച് ബയോ റിയാക്ടറുകളിൽ ഇനോകുലം സാന്ദ്രത ലിറ്ററിനു 0 5ഗ്രാം ആണ് ഇതാണ് ഇനിഷ്യൽ സെൽ സാന്ദ്രത ഈ സാഹചര്യങ്ങളിൽ ലാഗ് ഫേസ് സാധാരണയായി 20 മിനിറ്റ് നീണ്ടുനിൽക്കും ലോഗ് ഫേസിലെ തുടക്കത്തിലെ കോശങ്ങളുടെ സാന്ദ്രത ഇനോകുലേഷൻ നടത്തിയ ഉടൻ തന്നെ അതിൽ നിന്ന് കാര്യമായി വ്യത്യാസപ്പെട്ടിട്ടില്ലെന്ന് കരുതുക ലിറ്ററിന് 4 ഗ്രാം എത്താൻ ആവശ്യമായ സമയം കണക്കാക്കുക ഈ സാഹചര്യങ്ങളിൽ ഈ ജീവിയുടെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് 0 5 മണിക്കൂർ ഇൻവെർസ് ആണ് ലോഗ് ഫേസിൽ കോശങ്ങളുടെ സാന്ദ്രത ഇരട്ടിയാകാൻ ആവശ്യമായ സമയം എന്താണ് ഇതാണ് പ്രോബ്ലം ദയവായി ഇത് ചെയുക നേരത്തെ ലഭിച്ച സമവാക്യത്തിന്റെ ഒരു പ്രയോഗമാണിത് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ തീർച്ചയായും പരിഹാരം കാണും നമുക്ക് തുടരാം ഇനിഷ്യൽ വിശകലനം ആണ് നമ്മൾ ഇതുവരെ നടത്തിയത് നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിലെ സബ്സ്ട്രേറ്റ് സ്വാധീനം പരിഗണിച്ചില്ല വേണ്ടത്ര സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് നമ്മൾ നിശബ്ദമായി അനുമാനിച്ചിരുന്നു അതിനാൽ mu എന്നത് mu m ന് തുല്യമാണ് നമുക്ക് mu വേർസസ് അറിയാം S ഇനിഷ്യൽ ഫേസിൽ മാറുമ്പോൾ mu മാറുന്നു തുടർന്ന് കോൺസ്റ്റന്റ് മൂല്യം അല്ലെങ്കിൽ mu m എത്തുമ്പോൾ സാന്ദ്രത ഒരു നിശ്ചിത നിലവാരത്തിന് മുകളിലാണ് നമുക്ക് എല്ലായ്പ്പോഴും മതിയായ സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് നമ്മൾ ഊഹിച്ചു അതിനാൽ നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിനായി നമ്മൾ എല്ലായ്പ്പോഴും mu m ഇൽ ആയിരുന്നു ഇത് എല്ലായ്പ്പോഴും അങ്ങനെയാകണമെന്നില്ല നമ്മൾ അത് കണ്ടു ഇതാണ് വ്യതിയാനത്തിന്റെ ഗണിതശാസ്ത്ര പ്രാതിനിധ്യം S മായുള്ള mu ന്റെ വ്യതിയാനത്തിന്റെ മോണോഡ് മോഡൽ അതായത് നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് അതു mu m ഗുണിക്കണം S നെ Ks പ്ലസ് എസ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് μmSKSS ഈ വ്യതിയാനം വളർച്ചാ നിരക്കിനെ ബാധിക്കും അതിനാൽ ബാച്ചിൽ ഒരു നിശ്ചിത കോശങ്ങളുടെ സാന്ദ്രത കൈവരിക്കാൻ എടുക്കുന്ന സമയത്തിനെ അത് ആത്യന്തികമായി ബാധിക്കും ലോഗ് ഫേസിനായി mu m ന് പകരം mu m S by Ks plus S ഉപയോഗികാം അതിനാൽ dxdt സമം mu x ഇപ്പോഴും ഉപയോഗിക്കാം സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് mu നമ്മൾ മാറ്റുന്നു സബ്സ്ട്രേറ്റ് ഇഫക്റ്റ് ഉൾപ്പെടുത്തുന്നതിന് mu m S ബൈ K s പ്ലസ് S എടുക്കുന്നു dxdtmSKSSx ഇപ്പോൾ വിശകലനത്തിന്റെ എളുപ്പത്തിനായി രണ്ട് കേസുകൾ നമുക്ക് പരിഗണിക്കാം ആദ്യത്തെ കേസിൽ സബ്സ്ട്രേറ്റ് മൂല്യത്തേക്കാൾ വളരെ കൂടുതലാണ് Ks മൂല്യം S≫KS ഓർക്കുക അതായത് Ks എന്നത് സബ്സ്ട്രേറ്റ് സാന്ദ്രത ആണ് അതിൽ നമുക്ക് പരമാവധി വളർച്ചാ നിരക്കിന്റെ പകുതി ലഭിക്കുന്നു Ks നെക്കാൾ വളരെ കൂടുതലാണ് സബ്സ്ട്രേറ്റ് സാന്ദ്രത അതാണ് നമ്മൾ ആദ്യം നോക്കുന്ന അവസ്ഥ അങ്ങനെയാണെങ്കിൽ S ഏകദേശം K s ന് തുല്യമാണ് ഗണിതശാസ്ത്രപരമായി ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നോക്കാം K s S എന്നിവ ഡിനോമിനേറ്ററിൽ ചേർത്തു K s നെക്കാൾ വളരെ വലുതാണെങ്കിൽ നമുക്ക് പറയാം K s 1 ഉം S 1000 ഉം ആണെങ്കിൽ അത് ഡിനോമിനേറ്ററിൽ 1000 ആണോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 1001 ആണോ എന്ന് വ്യക്തമാക്കാൻ ഈ mu യുടെ മൂല്യവുമായി വളരെയധികം വ്യത്യാസമുണ്ട് അതിനാൽ നമുക്ക് വളരെ സുരക്ഷിതമായി K s പ്ലസ് s മാറ്റാൻ കഴിയും s വളരെ വലുതാണെങ്കിൽ K s നേക്കാൾ വളരെ വലുതാണ് നമ്മൾ ഡിനോമിനേറ്ററിനെ s ഉപയോഗിച്ച് മാറ്റിയാൽ നമുക്ക് mu m S ബൈ S എന്ന് കിട്ടും If S≫KS then mSKSSmSSm മുമ്പത്തെ അതേ കേസ് തന്നെയാണ് ഒരേയൊരു കാര്യം dx dt mu x ന് തുല്യമാണെന്ന് പറയുന്നതിനുപകരം നമുക്ക് നേരിട്ട് dx dt mu mx ന് തുല്യമാണെന്ന് പറയാൻ കഴിയും നമ്മുടെ മുമ്പത്തെ വിശകലനത്തിൽ ഇതിനെ പറ്റി പറഞ്ഞു ഇത് mu m times x ആണെന്ന് ആത്മവിശ്വാസത്തോടെ പറയാം ഇത് പരമാവധി നിർദ്ദിഷ്ട വളർച്ചാ നിരക്കാണ് ഇപ്പോൾ രണ്ടാമത്തെ വ്യവസ്ഥയാണ് s ഏകദേശം K s ന് തുല്യമാണെങ്കിൽ നമുക്ക് മുകളിലുള്ള ഏകദേശ വില ഉപയോഗിക്കാൻ കഴിയില്ല If S≈KS എങ്കിൽ രണ്ടും താരതമ്യപ്പെടുത്താവുന്നതിനാൽ നമുക്ക് Ks പ്ലസ് S മാറ്റിസ്ഥാപിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാനാവില്ല ഒരു ബാച്ച് ബയോറിയാക്ടറിന്റെ കാര്യത്തിൽ ഈ കേസ് അസാധാരണമാണ് മാത്രമല്ല നിർണായകവും എന്നാൽ അസാധാരണവുമായ ചില സബ്സ്ട്രേറ്റുകൾ പരിമിതപ്പെടുത്തുമ്പോൾ സംഭവിക്കാം അല്ലാത്തപക്ഷം ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ സംസ്കാരം നിശ്ചല ഘട്ടത്തിലെത്തുമായിരുന്നു ബാച്ചിലെ നമ്മൾ തന്നെയാണ് നമുക്ക് ആവശ്യത്തിന് സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നത് എന്നാൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ട് തുടർച്ചയായ ബയോ റിയാക്ടർ വിശകലനത്തിൽ ഇതിനും വലിയ പ്രസക്തിയുണ്ട് അതിനാൽ നമുക്ക് ഇത് ഇവിടെ നോക്കാൻ തുടങ്ങാം അവിടെ ഇതിന് കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട് തുടർന്ന് തുടർച്ചയായ കേസിനായി അത് എടുക്കുന്നതും കുറച്ച് എളുപ്പമാകും നമുക്ക് ഇവിടെ x S എന്നീ രണ്ട് അളവുകൾ ഉണ്ട് അവ ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു തീർച്ചയായും x അല്ലെങ്കിൽ S രണ്ടും അല്ലാത്ത ഒരു ഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ അഭികാമ്യമാകൂ എന്ന് നമുക്കറിയാം അത് ഇവിടെ ബുദ്ധിമുട്ടാണ് അതിനാൽ x ന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റൊന്നിനെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെങ്കിൽ x നെ നോക്കുന്നതുകൊണ്ട് നമുക്ക് x ഇൽ എല്ലാം ഉണ്ട് x ന്റെ കാര്യത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ സമവാക്യം പരിഹരിക്കാൻ കഴിയും നമ്മൾ അത് എങ്ങനെ ചെയ്യും അതിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ മൊഡ്യൂൾ 2 ലെ കോഴ്സിൽ നമ്മൾ മുമ്പ് കണ്ട ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ് മുമ്പത്തെ പ്രഭാഷണത്തിലോ മുമ്പത്തെ മൊഡ്യൂളിലോ യിൽഡ് കോഫിഫിഷ്യന്റ് എന്ന് നമ്മൾ നിർവചിച്ചത് കോശങ്ങളുടെ സാന്ദ്രതയെയും സബ്സ്ട്രേറ്റ് സാന്ദ്രതയെയും ബന്ധപ്പെടുത്തുന്നു Y x s സബ്സ്ട്രേറ്റ്മായി ബന്ധപ്പെട്ട കോശങ്ങളുടെ യിൽഡ് നമ്മൾ ഇവിടെ നിർവചിച്ച മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപഭോഗം ചെയ്യുന്ന സബ്സ്ട്രേറ്റ്ന്റെ അളവിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങളുടെ അളവല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്കറിയാം x മൈനസ് x naught കോശങ്ങളുടെ അളവ് ആണ് ഉപഭോഗം ചെയ്യുന്ന സബ്സ്ട്രേറ്റ് സാന്ദ്രതയാൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങളുടെ സാന്ദ്രത YxSamountofcellsproducedamountofsubstrateconsumedx x0S0 S സാന്ദ്രത യൂണിറ്റ് വോളിയം അനുസരിച്ച് ഒരു തുകയാണ് കാരണം നമ്മൾ ഒന്നിനെ മറ്റൊന്നായി വിഭജിക്കുകയും വോളിയം ഒന്നുതന്നെയാകുകയും ചെയ്യുന്നതിനാൽ നമുക്ക് വോള്യങ്ങൾ റദ്ദാക്കാൻ കഴിയും അതിനാൽ ഉപഭോഗം ചെയ്യുന്ന സബ്സ്ട്രേറ്റ് അളവിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സെല്ലുകളുടെ അളവ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സാന്ദ്രത ഉപയോഗിച്ച് മാറ്റാം നമുക്ക് ഒരേ യിൽഡ് കോയിഫിഷ്യന്റ് ഉണ്ടായിരിക്കും അതാണ് നമ്മൾ ഇവിടെ ചെയ്തത് Y x s ഒരു കോൺസ്റ്റന്റ് ആണെന്ന ധാരണ പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരു നല്ല അനുമാനമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് x ന്റെ അടിസ്ഥാനത്തിൽ S എഴുതാൻ യിൽഡ് കോയിഫിഷ്യന്റ് ഉപയോഗിക്കാം S0 ഒരു കോൺസ്റ്റന്റ് ആണ് S0 എന്നത് സാധാരണയായി അറിയപ്പെടുന്ന മൊത്തം സബ്സ്ട്രേറ്റ് ആണ് അതുപോലെ ലാഗ് ഫേസിൽ വലിയ മാറ്റമൊന്നുമില്ലെന്ന് കരുതുന്ന ഇനിഷ്യൽ കോശങ്ങളുടെ സാന്ദ്രതയാണ് x0 അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ x വേരിയബിളുകളിൽ താൽപ്പര്യമുണ്ട് ഒപ്പം വേരിയബിളായ S x എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ SS0 x x0YxS അതിനാൽ എസ് ഉൾപ്പെടുത്തുമ്പോൾ ഡിഫറൻഷ്യൽ സമവാക്യം മാറുന്നു dxdtmS0 x x0YxSKSS0 x x0YxSx ഘട്ടം ഘട്ടമായുള്ള പരിഹാരം കാണിക്കാൻ വളരെ സമയമെടുക്കും പ്രത്യേകിച്ചും ഈ കോഴ്സിന്റെ പശ്ചാത്തലത്തിൽ ഇത് ആകെ 10 മണിക്കൂറാണ് ഇത് കാണിക്കാൻ 45 മിനിറ്റ് എടുക്കും എല്ലാ ബീജഗണിതവും അതിനാൽ നമുക്ക് ഗണിതശാസ്ത്രത്തിൽ താൽപ്പര്യവും സൌകര്യപ്രദവുമാണെങ്കിൽ നമുക്ക് അരമണിക്കൂറോ അതിൽ കൂടുതലോ ഉള്ളപ്പോൾ ഇത് നടപ്പിലാക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു നമ്മൾ ഗണിതത്തിൽ മികച്ച ആളാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എടുക്കില്ല അറിയപ്പെടാത്ത ഫലങ്ങൾ നേടാൻ നമുക്ക് ഒരു സമഗ്ര പട്ടിക ആവശ്യമായി വന്നേക്കാം അതിനാൽ ഇന്റഗ്രലുകളുടെ പട്ടികയിൽ നിന്നും നമ്മൾ അറിയപ്പെടുന്ന ചില ഫലങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഇവിടെ ഞാൻ അത് മുഖവിലയ്ക്കെടുക്കേണ്ട അന്തിമ പരിഹാരം അവതരിപ്പിക്കാൻ പോകുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അത് പരിഹരിച്ച് സ്വയം ബോധ്യപ്പെടുത്തുക അത് തീർച്ചയായും പരിഹാരമാണെന്ന് ബാച്ചിന്റെ ആരംഭം മുതൽ ഒരു നിശ്ചിത സെൽ സാന്ദ്രത x ൽ എത്തുന്നതിനുള്ള ബാച്ച് ആരംഭിക്കുന്നതിനുള്ള ആകെ സമയം ഇപ്രകാരമാണ് t1mαln xx0 βln YxSS0x0 xYxSS0 t0 Where αKSYxSYxSS0x0YxSS0x0 βKSYxSYxSS0x0 ഇത് കാണിക്കാൻ ബീജഗണിതത്തിന് അൽപ്പം സമയമെടുക്കും നമ്മൾ ഗണിതത്തിൽ നല്ലയാളാണെങ്കിൽ താൽപ്പര്യമുള്ളവർ കുറച്ചു കൂടി വിശകലനം ചെയ്തു ഇതു തന്നെയാണെന്നു ഉറപ്പു വരുത്തുക ഈ പ്രഭാഷണത്തിനായി ഇവിടെ നിർത്താൻ ഇത് നല്ല സമയമാണെന്ന് ഞാൻ കരുതുന്നു അടുത്തതായി കണ്ടുമുട്ടുമ്പോൾ നിയുക്തമാക്കിയ പ്രശ്നം ഞാൻ പരിഹരിക്കും അത് പരിഹരിക്കുന്നതിന് ദയവായി എല്ലാ ശ്രമങ്ങളും നടത്തുക കുറഞ്ഞത് ക്ലോസ് എൻഡ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രയത്നം നിങ്ങൾ എടുക്കേണ്ടതുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഈ രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും